ആദ്യത്തെ ചോദ്യം ഇതാണ് 594 എന്ന പരിമിതമായ ഗെയിൻ ഉള്ള ഓപ് ആമ്പ് ഉപയോഗിച്ച് ഉള്ള ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടത് V0Vi കണ്ടുപിടിക്കാൻ ആണ് ഇപ്പോൾ ഈ A0594 എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 A0×വോൾട്ടേജ് വ്യത്യാസം Vd എന്നാണ് അതിനാൽ ഇപ്പോൾ ഈ പോയിൻറിലെ വോൾട്ടേജ് അതായത് ഇവിടെയുള്ള വോൾട്ടേജ് വീണ്ടും ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് Vi ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അടയാളപ്പെടുത്തലുകൾ പരിചിതമാണ് ഒരു പ്രത്യേക നോഡി ൽ Vi എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ നോഡിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള വോൾട്ടേജ് Vi ആണ് എന്നാണ് ഇവിടെ വോൾട്ടേജ് Vi Vd ആയിരിക്കും ഇവിടെ കറണ്ട് 1 കിലോ Ω ആണ് അതേ കറണ്ട് അവിടെ പ്രവഹിക്കുന്നു അതിനാൽ ഈ 5 കിലോ Ω റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 1 കിലോ Ω× 5 കിലോ Ω അല്ലെങ്കിൽ 5 × ആണ് കൂടാതെ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഉള്ള വോൾട്ടേജ് വെറും Vi Vd ആണ് അതിനാൽ ഇവിടെയുള്ള ഈ വോൾട്ടേജ് V0 6× എന്നത് ഈ രണ്ട് വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ആകെത്തുകയാണ് നമുക്കറിയാം V0 എന്നത് A0×Vd ആണെന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ Vd എന്നത് V0A0 ആണ് അതിനാൽ V0 6×Vi V0A0 എന്നത് ഇങ്ങനെ മാറ്റിയെഴുതാം ഇതിനെ ഈ വശത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് V0 6×V0A0 6×Vi എന്ന് എഴുതാം അതിനാൽ V0×1 6A0 6×Vi മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ V0Vi 6 1 6A0 പ്രഭാഷണത്തിലെ സൂത്രവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിൻ k ഉള്ള ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ഓപ് ആമ്പിൻറെ ഗെയിൻ പരിമിതമായിരിക്കുമ്പോൾ യഥാർത്ഥ ഗെയിൻ k×11kA0 ആയിരിക്കും അതാണ് കൃത്യമായി നമുക്ക് ലഭിച്ചത് പക്ഷേ ഫലങ്ങളൊന്നും ഓർമ്മ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ആദ്യ തത്വങ്ങളിൽ നിന്നുള്ള വിശകലനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു അതിനാൽ നമ്മുടെ കാര്യത്തിൽ ഇത് 61 6594 ആയി മാറുന്നു നിങ്ങൾ ഇത് കണക്കാക്കിയാൽ അത് കൃത്യമായി 5 94 ആയി മാറുന്നു അതാണ് ഉത്തരം ഇപ്പോൾ അടുത്ത ചോദ്യത്തിൽ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമ്പോൾ ഓപ് ആമ്പിൻറെ നെഗറ്റീവ് ടെർമിനൽ കണ്ടെത്താൻ ആണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദ്യ ഘട്ടത്തിൽ ഇവിടെ ഉള്ള സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടം അസാധുവാക്കി അതിനെ ഗ്രൌണ്ടും ആയി ബന്ധിപ്പിക്കുക തുടർന്ന് നിങ്ങൾ ഓപ് ആമ്പ് നീക്കം ചെയ്യുക അതിനാൽ ഞാൻ സർക്യൂട്ട് വീണ്ടും ഇവിടെ വരയ്ക്കും ഇവിടെ സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടങ്ങൾ ഉണ്ട് അതിനെ ഞാൻ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു ഇത് 2 കിലോ Ω 10 കിലോ Ω 1 കിലോ Ω 4 കിലോ Ω ഇത് A B എന്നിവയാണെന്ന് ഇവിടെ എനിക്ക് വോൾട്ടേജ് VAB ഉണ്ട് അതിനാൽ അടയാളം കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമം നേരെയുള്ളതാണ് ഞാൻ ഓപ് ആമ്പ് നീക്കം ചെയ്യുന്നു പിന്നെ ഇവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുകയും വോൾട്ടേജ് VAB കണ്ടെത്തുകയും ചെയ്യുന്നു ഇത് വളരെ നേരെയാണ് ഉള്ള രീതിയാണ് കാരണം നമുക്ക് രണ്ട് വ്യത്യസ്ത വോൾട്ടേജ് ഡിവൈഡറുകൾ മാത്രമേയുള്ളൂ അതിനാൽ ഞാൻ ഇതിനെ VA എന്നും ഇതിനെ VB എന്നും വിളിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ VA VB എന്നിവ സ്വതന്ത്രമായി കണ്ടെത്താനാകും അതിനാൽ VTEST ഈ വോൾട്ടേജ് ഡിവൈഡറിലൂടെ കടന്നുപോകുകയും നിങ്ങൾക്ക് VA ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ VA എന്നത് VTEST × 2 കിലോ Ωs ഉം 10 കിലോ Ω ഉം കാരണം രൂപീകരിക്കപ്പെട്ട വോൾട്ടേജ് ഡിവൈഡർ അതായത് VTEST × 2 കിലോ Ω 2 കിലോ Ω 10 കിലോ Ω അതായത് 16 × VTEST ആണ് ഇവിടെയുള്ള VB എന്നത് VTEST × 1 കിലോ Ω ഉം 4 കിലോ Ω ഉം കാരണം രൂപീകരിക്കപ്പെട്ട വോൾട്ടേജ് ഡിവൈഡർ അതായത് VTEST × 1 കിലോ Ω 1 കിലോ Ω 4 കിലോ Ω അതായത് 15 × VTEST ആണ് അതിനാൽ VA VB ആയ VAB എന്നത് VTEST × 16 - 15 ആണ് ഇത് VTEST× 130 ആയി മാറുന്നു അടിസ്ഥാനപരമായി ഇത് ഒരു നെഗറ്റീവ് സംഖ്യ × VTEST ആണ് എന്നതാണ് കാര്യം അതിനാൽ ഇപ്പോൾ ഈ VAB ഒരു നെഗറ്റീവ് സംഖ്യ × VTEST ആണ് ഇതിനർത്ഥം A പോസിറ്റീവ് ആയിരിക്കണം B നെഗറ്റീവ് ആയിരിക്കണം എന്നാണ് കാരണം ഒടുവിൽ നിങ്ങൾക്ക് സർക്യൂട്ടിൽ ഓപ് ആമ്പ് ഉണ്ടാവുകയും അതിന് ഒരു വോൾട്ടേജ് വ്യത്യാസം Vd ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കണമെങ്കിൽ Vd യിൽ Vout ൻറെ ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കുകയും ഈ സംഖ്യ നെഗറ്റീവ് ആയിരിക്കുകയും വേണം ഇപ്പോൾ VAB എന്നത് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന VTEST എന്ന വോൾട്ടേജ് × ഒരു നെഗറ്റീവ് നമ്പർ ആണ് നമ്മൾ ഓപ് ആമ്പ് നീക്കം ചെയ്ത് ഔട്ട്പുട്ടിൽ VTEST സ്ഥാപിക്കുകയായിരുന്നു അതിനാൽ ഈ Vd എന്നത് VAB യ്ക്ക് തുല്യമായിരിക്കണം VAB എന്നത് ഒരു പോസിറ്റീവ് സംഖ്യ × VTEST ആയിരിക്കണം ഈ Vd എന്നത് VAB ആയിരിക്കണം ഈ സാഹചര്യത്തിൽ ഓപ് ആമ്പിൻറെ വോൾട്ടേജ് വ്യത്യാസം VAB യ്ക്ക് തുല്യമായിരിക്കണം അതായത് A പോസിറ്റീവ് ടെർമിനലും B നെഗറ്റീവ് ടെർമിനലും ആണ് അതാണ് ഇവിടെ ഉത്തരമായി നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു ഓപ് ആമ്പ് സർക്യൂട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാ ഓപ് ആമ്പിനും വെർച്വൽ ഷോർട്ട് തത്വം പ്രയോഗിക്കാൻ കഴിയും തുടർന്ന് നമ്മൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടെത്തേണ്ടതുണ്ട് ഉത്തമമായ ഓപ് ആമ്പുകൾ നൽകുമ്പോൾ ഓപ് ആമ്പ് സർക്യൂട്ട് വിശകലനം വളരെ എളുപ്പമാണ് കാരണം ആദ്യമേ തന്നെ ഇത് പൂജ്യം വോൾട്സ് ആണ് ഇപ്പോൾ ഈ നോഡിലെ വോൾട്ടേജ് V1 ആണ് അതിനാൽ ഈ നോഡും V1 ൽ ആണ് ഒടുവിൽ ഇവിടെ ഈ നോഡ് V2 ലും ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയ ഈ ഓപ് ആമ്പിൻറെ ഇൻപുട്ടുകൾക്ക് കുറുകെയും പൂജ്യം വോൾട്സ് ഉണ്ട് അതിനാൽ ഇതും V2 ൽ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ടെർമിനലുകളിൽ കിർച്ച്ഹോഫ്സ് കറണ്ട് ലോ Kirchhoffs current law സമവാക്യങ്ങൾ എഴുതുക മാത്രമാണ് ഓപ് ആമ്പിലേക്ക് കറണ്ട് ഒന്നും പ്രവഹിക്കുന്നില്ല അതിനാൽ ഇവിടെ പ്രവഹിക്കുന്ന കറണ്ട് V11 കിലോ Ω ആണ് കാരണം V1 എന്നത് 1 കിലോ Ω റെസിസ്റ്ററിനു കുറുകെയാണ് ഇതു തന്നെയാണ് ഈ വഴിയും പ്രവഹിക്കുന്നത് അതിനാൽ ഇതിനു കുറുകെയുള്ള വോൾട്ടേജ് V11 കിലോ Ω × 2 കിലോ Ω അഥവാ 2 × V1 ആണ് കൂടാതെ ആദ്യത്തെ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിൽ ഉള്ള വോൾട്ടേജ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അത് ആ നോഡിലെ വോൾട്ടേജുകൾ ഈ പോളാരിറ്റിയിൽ റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾട്ടേജ് ആയ 3 × V1 ആയിരിക്കും അതുപോലെ നമ്മൾ മറ്റ് ഓപ് ആമ്പുകൾക്കും ഇത് ഉപയോഗിക്കും അപ്പോൾ ഈ ദിശയിൽ ഒഴുകുന്ന കറണ്ട് 1 കിലോ Ω ആണ് ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് ഒന്നും പ്രവഹിക്കുന്നന്നില്ല അതിനാൽ ഇതെല്ലാം അവിടെ പ്രവഹിക്കുന്നു അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 1 കിലോ Ω × 1 കിലോ Ω ആണ് അത് V2 Vout ആണ് അതിനാൽ ഈ നോഡിലെ വോൾട്ടേജ് എന്നത് ഇവിടെ ഉള്ള വോൾട്ടേജ് അതായത് V2 ഈ പോളാരിറ്റിയിലെ വോൾട്ടേജ് അതായത് ആയിരിക്കും അതിനാൽ ഇവിടെ നമുക്ക് V2 V2 Vout ഉണ്ട് നമ്മൾ ഇതിനകം തന്നെ ഇവിടെ ഉള്ള വോൾട്ടേജ് 3×V1 ആണെന്ന് കണക്കാക്കിയിട്ടുണ്ട് അത് ഇതിന് തുല്യമായിരിക്കണം അതിനാൽ 3×V1 എന്നത് V2 V2 Vout എന്നതിന് തുല്യമായിരിക്കണം അതിനാൽ Vout എന്നത് 2×V2 3×V1അല്ലെങ്കിൽ 3×V1 2×V2 അഥവാ αV1 βV2 ആണ് അതിനാൽ α എന്നത് 3 ഉം β എന്നത് 2 ഉം ആണ് ഇപ്പോൾ അടുത്ത ചോദ്യം ഓപ് ആമ്പിൻറെ ടെർമിനലുകളുടെ ചിഹ്നങ്ങൾ കണ്ടെത്തുക എന്നതാണ് അത് തീർച്ചയായും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമ്പോൾ ഉള്ളതാണ് കണ്ടെത്തേണ്ടത് മുമ്പത്തെ പ്രശ്നം നമ്മൾ പരിഹരിച്ചത് അത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെന്ന് അനുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കണം എങ്കിൽ അതിൻറെ ചിഹ്നങ്ങൾ എങ്ങനെ കൊടുക്കണം എന്ന് നോക്കാം നമുക്ക് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ആരംഭിക്കാം ഞാൻ OPA1 ൽ നിന്ന് ആരംഭിക്കട്ടെ അതിനാൽ ഞാൻ ഈ ഓപ് ആമ്പ് നീക്കം ചെയ്യട്ടെ എന്നിട്ട് എനിക്ക് VAB അളക്കണം എളുപ്പത്തിനായി ഞാൻ ഇതിനെ VAB എന്ന് വിളിക്കുന്നു ഈ ടെർമിനലുകൾ A1 ഉം B1 ഉം ആണ് ഞാൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുക എന്നതാണ് എന്നിട്ട് സ്വതന്ത്ര ഉറവിടങ്ങളെ അസാധുവാക്കുക അതിനാൽ V1 0 V2 0 ആണ് അതിനാൽ ഇത് ഗ്രൌണ്ടിലേക്ക് ഷോർട്ട് ചെയ്യപ്പെടുന്നു അതും ഗ്രൌണ്ടിലേക്ക് ഷോർട്ട് ചെയ്യപ്പെടുന്നു അതിനാൽ ഇപ്പോൾ VTEST ചില സർക്യൂട്ടിലൂടെ കടന്നുപോകും പതിവുപോലെ VAB എന്നത് VTEST ന് അനുപാതികമാണ് VAB എന്നത് പോസിറ്റീവ് സംഖ്യ × VTEST ആണെങ്കിൽ A1 നെഗറ്റീവും B1 പോസിറ്റീവും ആണ് VAB എന്നത് നെഗറ്റീവ് സംഖ്യ × VTEST ആണെങ്കിൽ A1 പോസിറ്റീവും B1 നെഗറ്റീവും ആണ് അതിനാൽ ഇപ്പോൾ ഈ ഓപ് ആമ്പ് ഇതിനകം തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് എന്ന് ആദ്യം നമുക്ക് അനുമാനിക്കാം അതായത് ഇത് പൂജ്യം വോൾട്സ്ൽ ആണ് ഇതും പൂജ്യം വോൾട്സ്ൽ ആണ് അപ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് VTEST 1 കിലോ Ω ആയിരിക്കും അതേ കറണ്ട് റെസിസ്റ്ററിലൂടെ പ്രവഹിക്കും നോക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമൊന്നുമില്ല കാരണം ഇവിടെ പ്രവഹിക്കുന്ന കറണ്ട് അവിടെ പ്രവഹിക്കും ഈ ഓപ് ആമ്പിന് ചുറ്റും ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോൾ നിങ്ങൾ ചില വൈരുദ്ധ്യങ്ങളിൽ എത്തിച്ചേരും എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ ഓപ് ആമ്പിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് കരുതുന്നത് തികച്ചും നല്ലതാണ് അപ്പോൾ ഇതിന്റെ ചിഹ്നങ്ങളെ കുറിച്ച് നമുക്ക് ആശങ്ക വേണ്ട അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് ഈ കറണ്ട് ആയ VTEST 1 കിലോ Ω × 1 കിലോ Ω ആണ് അതിനാൽ അതും VTEST ആണ് ഇപ്പോൾ ഇത് പൂജ്യം വോൾട്സ് ആയതിനാൽ ഇതിനു കുറുകെ ഒരു VTEST എന്ന ഡ്രോപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് VTEST ലഭിക്കുന്നു പിന്നെ ഇവിടെ ഞാൻ ഇതിനെ VA എന്ന് വിളിക്കുകയാണെങ്കിൽ അത് പൂജ്യം വോൾട്സ് ആണ് കാരണം ഇത് ഗ്രൌണ്ടിലേക്ക് ഷോർട്ട് ചെയ്തിരിക്കുന്നു ഈ VB എന്നത് ഈ VTEST×ഈ റെസിസ്റ്റർ ഡിവൈഡറിൽ നിന്ന് വരുന്ന അനുപാതം ആണ് അത് 1 കിലോ Ω 1 കിലോ Ω 2 കിലോ Ω ആണ് അതിനാൽ VB എന്നത് VTEST3 ആയിരിക്കും അതിനാൽ ഈ പോളാരിറ്റിയിലെ ഈ VAB എന്നത് 0 VTEST3 അല്ലെങ്കിൽ 13×VTEST ആണ് അതിനാൽ ഇതൊരു പോസിറ്റീവ് സംഖ്യ × VTEST ആണ് അത് അർത്ഥമാക്കുന്നത് A1 എന്നത് ഓപ് ആമ്പിൻറെ നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം എന്നാണ് അപ്പോൾ അതാണ് അവിടെ നൽകിയിരിക്കുന്നത് അതിനാൽ ആദ്യത്തെ ഓപ് ആമ്പിന് A1 ആണ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഓപ് ആമ്പിനും ഇതുതന്നെ ആവർത്തിക്കാം ഇത് നെഗറ്റീവ് ടെർമിനലാണെന്നും ഇത് പോസിറ്റീവ് ടെർമിനലാണെന്നും നമുക്ക് അറിയാം പതിവുപോലെ നമ്മൾ ഉറവിടങ്ങളെ V1 0 V2 0 എന്ന് കൊടുത്ത് അസാധുവാക്കി ഞാൻ ഈ ഓപ് ആമ്പ് നീക്കംചെയ്ത് VTEST പ്രയോഗിക്കുന്നു ഇപ്പോൾ വീണ്ടും ആദ്യം നമുക്ക് ഈ ഓപ് ആമ്പിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് അനുമാനിക്കാം അതിനാൽ ഇതിൻറെ ഇൻപുട്ടുകൾ വെർച്വൽ ഗ്രൌണ്ടിലാണ് എന്നാൽ ഇത് പൂജ്യം വോൾട്സ്ൽ ആണെന്ന് നിങ്ങൾ അനുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകും കാരണം ഓപ് ആമ്പിലേക്ക് കറണ്ട് ഒന്നും പ്രവഹിക്കുന്നില്ല നമ്മളിവിടെ VTEST കൊടുക്കുന്നു ഈ 2 കിലോ Ω ഉം 1 കിലോ Ω ഉം സീരീസ് ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് റെസിസ്റ്ററുകൾ സീരിയസ് ആയി ബന്ധിപ്പിച്ചിട്ടുള്ളപ്പോൾ ഞാൻ അതിനെ ഒരു വോൾട്ടേജ് ഡിവൈഡർ എന്ന് വിളിക്കുന്നു കൂടാതെ മറ്റെവിടെയും ഒരു കറണ്ടും പ്രവഹിക്കുന്നില്ല അതിനാൽ ഇത് R2 എന്നും R1 എന്നും പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ Vx കൊടുക്കുമ്പോൾ നമുക്ക് Vx×R2R1R2 ലഭിക്കും അതിനാൽ നമുക്ക് അവിടെ VTEST3 ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അതാണ് ഇവിടെ പ്രശ്നം കാരണം ഇപ്പോൾ വെർച്വൽ ഗ്രൌണ്ട് എന്ന ആശയം ഇത് പൂജ്യം വോൾട്സ് ആണെന്ന് പറയുന്നു ഇത് ശരിക്കും അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വെർച്വൽ ഗ്രൌണ്ട് ആശയം അഥവാ ഈ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് എന്ന കാര്യം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഇത് ആശ്ചര്യകരമല്ല കാരണം ഈ ഓപ് ആമ്പ് ഉള്ളപ്പോൾ മാത്രമേ ഈ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിലാകൂ എന്ന് മനസ്സിലാക്കാം അതിനാൽ ഇപ്പോൾ നമുക്ക് ആ മാതൃക ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിന് ഒരു നിശ്ചിത ഗെയിൻ A0 ഉണ്ട് എന്നതാണ് അത് എന്താണെന്നത് പ്രശ്നമല്ല അതിനാൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ ടെർമിനലിൽ ആ VTEST3 ആണ് അത് പിന്നെ ഇങ്ങനെയാണ് ഈ പാതയിലെ വോൾട്ടേജ് എന്ന് നമുക്കറിയാം ഈ പാതയിലെ വോൾട്ടേജ് VTEST3 ആണ് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് A0×VTEST3 ആയിരിക്കും കാരണം ഇവിടെയുള്ള ഈ വോൾട്ടേജ് ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം Vd ആണ് അതിനാൽ ഇത് A0×VTEST3 ആണ് അതിനാൽ ഇവിടെ ദൃശ്യമാകുന്ന വോൾട്ടേജ് എന്താണോ അത് നമുക്ക് കണക്കാക്കാം ഞാൻ ഇതിനെ Vx എന്ന് വിളിക്കട്ടെ മറ്റേ ടെർമിനൽ എന്തായാലും പൂജ്യം വോൾട്സ്ൽ ആണ് ഞാൻ ഇതിനെ Vx എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നിശ്ചിത കറണ്ട് പ്രവഹിക്കുന്നു അത് അടിസ്ഥാനപരമായി A0×VTEST3 Vx × 11 കിലോ Ω ആണ് ഇത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അതിനാൽ ഈ വോൾട്ടേജ് ആ വോൾട്ടേജ് 1 കിലോ Ω ആണ് കറണ്ട് കൂടാതെ ഈ ദിശയിൽ മറ്റൊരു കറണ്ട് പ്രവഹിക്കുന്നു അതായത് ഇവിടെയുള്ള വോൾട്ടേജ് 1 കിലോ Ω അതിനാൽ ഈ നോഡിലേക്ക് പ്രവേശിക്കുന്ന കറണ്ടുകളുടെ ആകെത്തുക പൂജ്യം ആയിരിക്കണം കാരണം അവിടെ ഒന്നും ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ 1 കിലോ Ω 0 ആണ് ഇതിൽ നിന്ന് ഞാൻ Vx കണ്ടെത്തും അതിനാൽ Vx എന്നത് A03×VTEST VTEST എന്നതിൻറെ പകുതിയായി മാറും അതായത് 12 × A03 1 × VTEST ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ് ഞാൻ ഇതിനെ VAB എന്ന് വിളിക്കട്ടെ ഇതൊരു പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഇത് നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം എന്നും അത് പോസിറ്റീവ് ടെർമിനൽ ആയിരിക്കണം എന്നുമാണ് അതിനാൽ B2 നെഗറ്റീവ് ടെർമിനലാണ് അതാണ് അവിടെയുള്ള ഉത്തരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ അടുത്ത ചോദ്യം ഇതാണ് 10 വോൾട്സ് ഉപയോഗിച്ച് ഈ ഓപ് ആമ്പ് പ്രവർത്തിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഔട്ട്പുട്ട് വൈദ്യുതി വിതരണ മൂല്യങ്ങളിലേക്ക് സാച്ചുറേറ്റ് ചെയ്യപ്പെടുമെന്നാണ് അതായത് 10 വോൾട്സ്ന് മുകളിൽ പോകാനോ 10 വോൾട്സ്ന് താഴെ പോകാനോ കഴിയില്ല എന്നതാണ് ഇൻപുട്ട് നൽകിയിരിക്കുന്നത് 1 വോൾട്സ് Vp കോസ്⍵t എന്നാണ് ഇത് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് നമുക്കറിയാം ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും വെർച്വൽ ഗ്രൌണ്ട് ആശയം ഉപയോഗിച്ച് ഇത് പൂജ്യം വോൾട്സ് ആണെന്ന് കരുതുക ഇത് Vi ആണ് Vi1 കിലോ Ω ആണ് ആ വഴിക്ക് പ്രവഹിക്കുന്നത് ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് ഒന്നും പ്രവഹിക്കാത്തതിനാൽ അതേ കറണ്ട് അവിടെ പ്രവഹിക്കുന്നു ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് Vi1 കിലോ Ω × 4 കിലോ Ω അഥവാ Vi×4 ആണ് അതിനാൽ ഇവിടെ ഈ വോൾട്ടേജ് 4×Vi ആണ് ഇത് പൂജ്യം വോൾട്സ് 4 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഉള്ള ഡ്രോപ്പ് ആണ് അതിനാൽ Vout എന്നത് 4×1 വോൾട്സ് Vp കോസ്⍵t അല്ലെങ്കിൽ 4 വോൾട്സ് 4കോസ്⍵t ആണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ വോൾട്ടേജ് 4 വോൾട്സ് 4Vp കോസ്⍵t എന്നത് 10 വോൾട്സ്നും 10 വോൾട്സ്നും ഇടയിലായിരിക്കണം ഇപ്പോൾ ഞാൻ ഈ 4 ഈ വശത്തേക്ക് എടുത്താൽ അത് പറയുന്നത് 4 Vp കോസ്⍵t എന്നത് 14 വോൾട്സ്നേക്കാൾ ചെറുതായിരിക്കണം എന്നാണ് ഞാൻ ഇത് ആ വശത്തേക്ക് എടുക്കുകയും 6 വോൾട്സ് ഞാൻ ആ വശത്തേക്ക് എടുക്കുകയും പിന്നെ എല്ലാ വശവും 4 ഉപയോഗിച്ച് ഹരിച്ചാൽ അസമത്വത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും നേർവിപരീതം ആകും പിന്നെ എനിക്ക് 1 5 Vp കോസ്⍵t 3 5 എന്ന് ലഭിക്കും അതിനാൽ ഇപ്പോൾ രണ്ട് വ്യത്യസ്ത പരിധികൾ ഉണ്ട് ഒന്നാമതായി നമുക്കറിയാം Vp കോസ്⍵t എന്നത് Vp ക്കും Vp ക്കും ഇടയിൽ ആയിരിക്കുമെന്ന് പിന്നെ അത് മുകൾ വശത്ത് 1 5 വോൾട്സ് ലും താഴെ വശത്ത് 3 5 വോൾട്സ് എന്ന വളരെ വലിയ മൂല്യത്തിലും പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ വ്യക്തമായും പ്രസക്തമായ പരിധി മുകൾ വശത്താണ് കോസ്⍵t യുടെ പരമാവധി മൂല്യം ഒന്ന് ആണ് അതിനാൽ Vp എന്നത് 1 5 വോൾട്സ് നേക്കാൾ ചെറുതായിരിക്കണം അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ഇൻപുട്ടിന് 1 വോൾട്സ് ന്റെ ഓഫ് സെറ്റ് ഉള്ളതിനാൽ ഔട്ട്പുട്ടിന് 4 വോൾട്സ് ന്റെ നെഗറ്റീവ് ഓഫ് സെറ്റ് ഉണ്ടായിരിക്കും അതിനാൽ ഇതിൽ ഒരു വശം മറുവശത്തേക്കാൾ എളുപ്പത്തിൽ ക്ലിപ്പ് ചെയ്യപ്പെടും പക്ഷേ അത് ഒരു വശത്ത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന്റെ ഔട്ട്പുട്ട് എന്നത് ഇൻപുട്ടിന്റെ രേഖീയ ഗുണിതമല്ല അതിനാൽ ഓപ് ആമ്പ് സാച്ചുറേഷനിലേക്ക് പോകാതെ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിൽ ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന പരമാവധി ഇൻപുട്ട് Vp എന്നത് 1 5 വോൾട്സ് ആണ് ഇതിൽ വീണ്ടും ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട് ഈ റെസിസ്റ്റൻസ് സമം ആ റെസിസ്റ്റൻസ് ആണ് അതിനാൽ ഔട്ട്പുട്ട് 2×Vi ആണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാത്തപക്ഷം നിങ്ങൾക്ക് മുൻപത്തെ പ്രഭാഷണങ്ങൾ നോക്കാം കൂടാതെ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചില ലോഡ് റെസിസ്റ്റൻസും ഉണ്ട് ഈ ചോദ്യം വൈദ്യുതി വിതരണ വോൾട്ടേജുകളിൽ നിന്ന് ഓപ് ആമ്പ് വലിക്കുന്ന കറണ്ടുകളെ കുറിച്ചാണ് ഒന്നാമതായി അത് നിങ്ങളോട് പറയുന്നത് Vi പൂജ്യം ആയിരിക്കുമ്പോൾ ഇത് പൂജ്യം ആയിരിക്കും Ip Im എന്നീ കറണ്ടുകൾ 2 മില്ലി ആംപ്സ് ആണ് അതിനാൽ Vi പൂജ്യം ആയിരിക്കുമ്പോൾ ഇത് പൂജ്യം വോൾട്സ്ൽ ആയിരിക്കും അതിനാൽ ഇവിടെ കറണ്ട് പൂജ്യം ആയിരിക്കും അവിടെയുള്ള കറണ്ടും പൂജ്യം ആയിരിക്കും അതിനാൽ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് കറണ്ട് പൂജ്യം ആണ് അതായത് Ip Im എന്നിവയ്ക്കുള്ള മാതൃക ഇതാണ് അതായത് Ip എന്നത് ചില നിശ്ചിത മൂല്യം I0 കറണ്ട് പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ ആ കറണ്ട് ആണ് Im എന്നത് I0 കറണ്ട് ഉള്ളിലേക്ക് ഒഴുകുകയാണെങ്കിൽ ആ കറണ്ട് ആണ് കറണ്ട് ഉള്ളിലേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ Ip എന്നത് I0 ന് തുല്യമായിരിക്കും കറണ്ട് പുറത്തേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ Im എന്നത് I0 ന് തുല്യമായിരിക്കും ഇപ്പോൾ Vi 0 ആയിരിക്കുമ്പോൾ ഓപ് ആമ്പിൽ നിന്ന് ഒരു കറണ്ടും പുറത്തേക്ക് ഒഴുകുന്നില്ല അതിനാൽ ഇതിനർത്ഥം ഈ I0 മൂല്യം 2 മില്ലി ആംപ്സ് ആണ് എന്നാണ് കാരണം ഓപ് ആമ്പിൽ നിന്ന് കറണ്ട് പ്രവഹിക്കുന്നില്ല അപ്പോൾ Ip എന്നത് I0 ആണ് Im എന്നതും I0 ആണ് അതിനാൽ ഇത് പറയുന്നത് I0 എന്നത് 2 മില്ലി ആംപ്സ് ആണെന്നും ഇൻപുട്ട് 𝜋×കോസ്⍵t ആണെന്നും ആണ് ഇൻപുട്ട് 𝜋×കോസ്⍵t ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 2 𝜋×കോസ്⍵t ആയിരിക്കും അതിനാൽ ഇപ്പോൾ ഓപ് ആമ്പിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 2Viഈ റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്ററുകളുടെ ഈ പരമ്പര സംയോജനം ആണ് ഇവിടെ കറണ്ട് പ്രവഹിക്കുന്നില്ല അതിനാൽ ഈ വഴി പ്രവഹിക്കുന്ന കറണ്ട് 2Vi200 Ω ആണ് കൂടാതെ ആ വഴി പ്രവഹിക്കുന്ന കറണ്ട് 2Vi200 Ω ആണ് അതിനാൽ ഓപ് ആമ്പിൽ നിന്ന് പ്രവഹിക്കുന്ന മൊത്തം കറണ്ട് 2×Vi200 Ω 2×Vi200 Ω അഥവാ 2×Vi100 Ω ആണ് അതിനാൽ ഇൻപുട്ട് 𝜋×കോസ്⍵t ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 2𝜋×കോസ്⍵t ആയിരിക്കും കറണ്ട് 2𝜋×കോസ്⍵t100 Ω ആംപ്സ് അഥവാ അടിസ്ഥാനപരമായി 20𝜋×കോസ്⍵t മില്ലി ആംപ്സ് ആയിരിക്കും അതിനാൽ മൊത്തം കറണ്ട് ഉയർന്ന മൂല്യം 20𝜋 മില്ലി ആംപ്സ് ഉള്ള ഒരു സൈനുസോയിടൽ ആണ് ഇപ്പോൾ ആവൃത്തിയുടെ ഈ ഭാഗത്ത് കറണ്ട് ഓപ് ആമ്പിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കും ഇത് Ip ക്ക് സംഭാവന ചെയ്യും നിങ്ങൾ ഇതിന്റെ ശരാശരി കണക്കാക്കുകയാണെങ്കിൽ മറ്റ് അടിസ്ഥാന ഗണിതത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം ഈ ഹാഫ് വേവ് റക്റ്റിഫയർ സൈൻ തരംഗത്തിന്റെ മൂല്യം അതായത് പകുതി സൈൻ തരംഗത്തിന്റെ മൂല്യം 1𝜋×ഉയർന്ന മൂല്യം ആയിരിക്കും എന്ന് അതിനാൽ ഇവിടെ ചോദിക്കുന്ന ശരാശരി മൂല്യം 20𝜋𝜋 ആണ് അത് 20 മില്ലി ആംപ്സ് ആണ് അതുപോലെ തന്നെ നെഗറ്റീവ് ആവൃത്തിയിൽ ഉയർന്ന മൂല്യം 20𝜋 ഉണ്ട് അപ്പോൾ ശരാശരി മൂല്യം വീണ്ടും 20𝜋𝜋 അഥവാ 20 മില്ലി ആംപ്സ് ആണ് അതിനാൽ Ip യുടെ ശരാശരി മൂല്യം സിഗ്നലിനെ ആശ്രയിക്കുന്ന 20 മില്ലി ആമ്പിയർ കറണ്ട് 2 മില്ലി ആമ്പിയർ എന്ന നിശ്ചിത കറണ്ട് ആയിരിക്കും ഇതിന് സമാനമായി Im എന്നത് നമുക്ക് 20 മില്ലി ആമ്പിയർ സൈനുസോയിടൽ കറണ്ട് 2 മില്ലി ആമ്പിയർ ഉണ്ട് അതിനാൽ ഇവ രണ്ടും 22 മില്ലി ആമ്പിയറിന് സമമാണ് നെഗറ്റീവ് വൈദ്യുതി വിതരണത്തിൽ നിന്നും ഉള്ള Im നും ഇത് ശരി തന്നെയാണ് ഇവിടെ അവസാനത്തെ ചോദ്യം 2 വോൾട്സ് ഉറവിടത്തിൽ നിന്ന് തരുന്ന പവറിനെ കുറിച്ച് സംസാരിക്കുന്നു അതിനായി പ്രധാനമായും നിങ്ങൾ അവിടെ പ്രവഹിക്കുന്ന കറണ്ടിൻറെ അളവ് കണക്കാക്കേണ്ടതുണ്ട് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആദ്യമേ തന്നെ ഇവിടെ 2 വോൾട്സ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനാകും അതായത് ഓപ് ആമ്പ് ഉത്തമം ആണെങ്കിൽ പിന്നെ അത് നെഗറ്റീവ് ഫീഡ് ബാക്കിൽ ആണെങ്കിൽ ഇത് 2 വോൾട്സ് ആയിരിക്കും ഇത് തീർച്ചയായും നെഗറ്റീവ് ഫീഡ്ബാക്കിലാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും അതിനാൽ ഇവിടെ കറണ്ട് 2 വോൾട്സ് 1 കിലോ Ω ആണ് അത് 2 മില്ലി ആമ്പിയർ ആണ് അതുപോലെ അവിടെയും കറണ്ട് 2 മില്ലി ആമ്പിയർ ആണ് അതിനാൽ ഇവിടെ ഉള്ള വോൾട്ടേജ് 2 മില്ലി ആമ്പിയർ × 4 കിലോ Ω ആണ് അത് 8 വോൾട്സ് ആണ് അതിനാൽ ഇവിടെ ഉള്ള മൊത്തം വോൾട്ടേജ് 2 വോൾട്സ് 8 വോൾട്സ് അതായത് 10 വോൾട്സ് ആണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ വഴി ഒരു കറണ്ട് പ്രവഹിക്കുന്നു അത് 2 വോൾട്സ്1 കിലോ Ω ആണ് അത് 2 മില്ലി ആമ്പിയർ ആണ് പിന്നെ ആ വഴി ഒരു കറണ്ട് പ്രവഹിക്കുന്നു അത് 10 2 ആണ് അഥവാ 8 വോൾട്സ് 8 കിലോ Ω അതായത് 1 മില്ലി ആമ്പിയർ ആണ് അതിനാൽ ഈ നോഡിൽ നമ്മൾ KCL പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 2 വോൾട്സ് ഉറവിടത്തിൽ നിന്നുള്ള കറണ്ട് 1 മില്ലി ആമ്പിയർ ആണെന്ന് അതിനാൽ വിതരണം ചെയ്യുന്ന പവർ 2 വോൾട്സ് × 1 മില്ലി ആമ്പിയർ ആണ് അത് 2 മില്ലി വാട്ട് ആണ് അതിനാൽ അതാണ് ഉത്തരം അതിനാൽ എട്ടാം ആഴ്ചയിലെ അസൈൻമെന്റിനുള്ള പരിഹാരങ്ങൾ അവസാനിക്കുന്നു